മാഗ്നറ്റിക് ഫീൽഡ് മാറ്റം കൊണ്ടുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫാരഡെയുടെ നിയമമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരു സർക്യൂട്ടിൽ ഉൽപാദിപ്പിക്കുന്ന EMF മൈനസ് dΦdt ക്ക് തുല്യമാണെന്ന് പറയുന്നു മൈനസ് dd t ഇന്റഗ്രൽ B അത് r ഉം t യും ആശ്രയിച്ചിരിക്കുന്നതാണ് ഡോട്ട് d s എന്നായിരിക്കും ds അതിന്റെ അർത്ഥം എന്തെന്നാൽ ഞാൻ കാന്തികമണ്ഡലം ഉള്ള ഒരു വയർ എടുത്ത് വയറിന്റെ ആകൃതി മാറ്റുകയോ കാന്തിക മണ്ഡലം മാറ്റുകയോ ചെയ്താൽ ഇതിൽ ഒരു കറന്റ് ഉണ്ടാകും മുമ്പത്തെ പ്രഭാഷണത്തിൽ ഒരു ഉദാഹരണത്തിലൂടെ ഒരു വടി പുറത്തേക്ക് നീക്കി മോഷണൽ EMF എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഘടകം നമ്മൾ കണ്ടു അത് യഥാർത്ഥത്തിൽ വിസ്തീർണത്തിൻറെ മാറ്റത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പ്രദർശിപ്പിച്ച ഉദാഹരണങ്ങളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മാറിക്കൊണ്ടിരുന്ന ഒരേയൊരു കാര്യം B ആയിരുന്നു അതിനാൽ EMF ന് കാരണമായത് B യിലെ മാറ്റം ആയിരിക്കാം അതിനാൽ EMF ന് രണ്ട് പദങ്ങൾ ഉണ്ടായിരിക്കാം മൈനസ് d by d t B സമയത്തിനനുസരിച്ച് മാറുന്നതിനാൽ ഞാൻ ഇവിടെ ഒരു ഭാഗിക ഡെറിവേറ്റീവ് ഇടുന്നു കാരണം തന്നിരിക്കുന്ന r ൽ t മാത്രമാണ് മാറുന്നത് അത് ഡോട്ട് d s പ്ലസ് t യെ ആശ്രയിക്കാതെ r ൽ മാത്രമുള്ള B ഡോട്ട് d s ആണ് കൂടാതെ ഇത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അത് കാന്തിക മണ്ഡലത്തിലെ മാറ്റം കാരണമുണ്ടാകുന്ന ഫീൽഡ് തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് നൽകുന്നു കാന്തിക മണ്ഡലത്തിലെ മാറ്റം മൂലമുണ്ടാകുന്ന വൈദ്യുത മണ്ഡലമാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡ്

dsBddtds പ്രകടനത്തിൽ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ പുറത്തേക്ക് ചാടുന്ന ഒരു റിംഗ് ഉണ്ടായിരുന്നു അതായത് കറൻറ് ഉല്പാദിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട EMF ഉണ്ടായിരുന്നു അതായിരുന്നു റിംഗ് പുറത്തേക്ക് ചാടാൻ കാരണമായത് B മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എനിക്ക് ഉണ്ടെന്ന് കരുതുക ഞാൻ അതിന് ചുറ്റും ഒരു വയർ വെച്ചു അപ്പോൾ ഒരു EMF ഉണ്ടായി അത് ഷേഡ് ചെയ്ത പർപ്പിൾ വസ്തുവിന്റെ വിസ്തൃതിയുടെ dBd t ക്ക് തുല്യമാണ് അതിനാൽ ഞാൻ ആ പ്രദേശം പർപ്പിൾ നിറത്തിൽ ആക്കുകയാണ് ഇത് എനിക്ക് ആ വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് തവണ വയറിൻറെ നീളത്തിന് തുല്യമായി എഴുതാം അത് E തവണ 2 പൈ r ആണ് അതിനാൽ E എന്നത് 1 ഓവർ 2 പൈ r dB by dt തവണ വിസ്തൃതിക്ക് തുല്യമാണ്

A ഇലക്ട്രിക് ഫീൽഡ് ആ വയറിൽ മാത്രമാണോ അതോ അത് എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ടോ ഞാൻ ആന്തരിക വളയത്തിൽ വയർ ഇട്ടാൽ അപ്പോഴും കറന്റ് ഒഴുകുന്നു അതിനാൽ അതിനർത്ഥം വൈദ്യുത മണ്ഡലം അവിടെയും സൃഷ്ടിക്കുന്നു എന്നാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ സമവാക്യങ്ങൾ മാറ്റാൻ പോകുന്നത് ഫീൽഡുകളുടെ അടിസ്ഥാനത്തിൽ എഴുതിക്കൊണ്ടാണ് അതായത് ഫാരഡെയുടെ നിയമം ഫീൽഡുകളുടെ അടിസ്ഥാനത്തിൽ എഴുതുന്നു അപ്പോൾ ഞാൻ അവിടെ വയർ ഇടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിക്കുകയില്ല കാന്തിക മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നു അതാണ് വൈദ്യുത മണ്ഡലം ഈ കാന്തികമണ്ഡലത്തിന്റെ മാറ്റത്തോടെ ഉയർന്നുവരുന്നതാണ് വൈദ്യുത മണ്ഡലം കാരണം അത് വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നു കൂടാതെ അതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ EMF ഇന്റഗ്രൽ മൈനസ് db by dt of r t ഡോട്ട് d s എന്ന് എഴുതാം ഇവിടെ ds പ്രദേശം ആണ് ഞാൻ ഇപ്പോൾ B മാറുന്ന ഈ പ്രദേശം എടുത്ത് അതിന് ചുറ്റും ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലൂടെ ഞാൻ ds എന്ന ഈ പ്രദേശം കണക്കിലെടുത്തു അപ്പോൾ എനിക്ക് മൈനസ് ഇന്റഗ്രൽ dB by dt ഡോട്ട് ds എന്ന EMF നു തുല്യമായ എന്ന വാക്യം ലഭിക്കുന്നു ഈ ലൂപ്പിലൂടെയുള്ള EMF ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് E ഡോട്ട് dl അല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല ഇതിനെ സ്റ്റോക്സ് സിദ്ധാന്തം അനുസരിച്ച് ഇന്റഗ്രൽ കേൾ E ഡോട്ട് ds ആണെന്ന് എഴുതാം അതിനാൽ ഫാരഡെയുടെ നിയമത്തിലൂടെ ഏതൊരു ലൂപ്പിലും മൈനസ് ഇന്റഗ്രേഷൻ dB by dt ഡോട്ട് ds നെ ഇന്റഗ്രൽ കേൾ E ഡോട്ട് ds ന് തുല്യമാണെന്ന് എഴുതാവുന്നതാണ് കാരണം എനിക്ക് ഇതിൽ ഏത് വലുപ്പത്തിലുള്ള വയർ എടുത്താലും ഒരു കറന്റ് അതിലൂടെ ഒഴുകും അതിനാൽ എനിക്ക് എളുപ്പത്തിൽ കേൾ E എന്നാൽ മൈനസ് dB by dt ആയിരിക്കുമെന്ന് നിഗമനം ചെയ്യാൻ കഴിയും കാരണം ds ഏകപക്ഷീയമാണ് ആ ലൂപ്പ് വലുപ്പം അനിയന്ത്രിതമാണ് എന്താണ് ഇതിനർത്ഥം അതിന്റെ അർത്ഥം r എന്ന ഒരു പോയിന്റിൽ dB by dt 0 ന് തുല്യമല്ലെങ്കിൽ അതായത് കാന്തിക മണ്ഡലം മാറുകയാണെങ്കിൽ അത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉത്പാദിപ്പിക്കുന്നു അത്തരം ഇലക്ട്രിക് ഫീൽഡിന്റെ കേൾ E മൈനസ് dB by dt ക്ക് തുല്യമാണ്

ds B∂t ഇപ്പോൾ വൈദ്യുത മണ്ഡലം ഉത്പാദിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ഉറവിടം നമുക്കുണ്ട് അതിനാൽ നമുക്ക് രണ്ട് സ്രോതസ്സുകളുണ്ട് ഒന്ന് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡൈവർജൻസ് rho r ഓവർ എപ്സിലോൺ 0 ന് തുല്യമാണ് കൂടാതെ മറ്റൊന്ന് കേൾ E എന്നാൽ മൈനസ് dB by dt നൽകുന്നു ഇത് നമ്മൾ കുറച്ച് പരിഹരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കാന്തികക്ഷേത്രത്തിൽ മാറ്റമില്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് E യുടെ ഡൈവജൻസ് rho r ഓവർ എപ്സിലോൺ 0 ആയിരുന്നു കേൾ E എന്നാൽ 0 ആയിരുന്നു ഇത് ഒരു പൊട്ടൻഷ്യൽ v r ഉണ്ടാക്കുകയും അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ മുഴുവൻ സംവിധാനങ്ങളും വികസിപ്പിക്കുകയും ചെയ്തു നമുക്ക് ചലനാത്മക സാഹചര്യം നോക്കാം ഇവിടെ ചാർജ് 0 ആണെന്ന് കരുതുക ഞാൻ rho r 0 ആയി എടുത്തെന്ന് കരുതുക അപ്പോൾ E യുടെ ഡൈവർജൻസ് 0 ആയിരിക്കും എന്നാൽ E യുടെ കേൾ മൈനസ് dB by dt ക്ക് തുല്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലത്തിന്റെ ഉറവിടം മാറുന്ന കാന്തിക മണ്ഡലമാണ് കേൾ E 0 ആണ് B യുടെ സമവാക്യങ്ങളുമായുള്ള ഈ സമവാക്യങ്ങളുടെ സമാനത ശ്രദ്ധിക്കുക ഇത് എനിക്ക് ഡൈവർജൻസ് B 0 നൽകുന്നു കേൾ B എന്നാൽ mu 0 j ആയിരുന്നു ഇവിടെ കറൻറ് സാന്ദ്രത B യുടെ സ്രോതസ്സ് ആയിരിക്കും E യുടെ സ്രോതസ്സ് dB by dt ആയിരിക്കും രണ്ടിന്റെയും ഡൈവർജൻസ് 0 ആയി മാറുന്നു ഇതിലെ സമാനത നിങ്ങളോട് പറയുന്നത് കാന്തികമണ്ഡലം മാറ്റുന്നതിലൂടെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലത്തിനുള്ള പരിഹാരം മൈനസ് 1 ഓവർ 4 പൈ ഇന്റഗ്രൽ r പ്രൈമിലെ dB by dt ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ് dB പ്രൈമിനു തുല്യമാണ് കാരണം സമാന സമവാക്യങ്ങൾ സമാന അതിർത്തി എന്നീ വ്യവസ്ഥകൾക്ക് ഒരേ ഉത്തരം ആയിരിക്കണം rt 14πBr∂t×r rr r3dV ശ്രദ്ധിക്കുക dB by dt നിർമ്മിച്ച ഈ ഫീൽഡിൽ പൂജ്യം അല്ലാത്ത കേൾ ആയിരിക്കും അതായത് സ്റ്റോക്സ് സിദ്ധാന്തപ്രകാരം ഇന്റഗ്രൽ E ഡോട്ട് dl 0 അല്ല കാരണം E ഡോട്ട് dl എന്നാൽ EMF അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് ഇതിനകം അറിയാവുന്നതാണ് അതിനാൽ ഈ ഫീൽഡ് യാഥാസ്ഥിതികമല്ല കാന്തികക്ഷേത്രത്തിലെ മാറ്റത്താൽ ഉണ്ടാകുന്ന E യാഥാസ്ഥിതികമല്ല അതിനർത്ഥം ഞാൻ മാറുന്ന ഒരു കാന്തിക മണ്ഡലത്തിന് ചുറ്റുമുള്ള ഒരു വൃത്താകൃതിയിലുള്ള പാത എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഞാൻ അതിനുചുറ്റും സഞ്ചരിക്കുന്നുവോ അത്രത്തോളം എനിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കും അല്ലാത്തപക്ഷം അത് യാഥാസ്ഥിതികമായിരുന്നെങ്കിൽ ഞാൻ ചുറ്റിസഞ്ചരിക്കുമ്പോഴെല്ലാം മൊത്തം ചെയ്ത വർക്ക് 0 ആയിരിക്കും പക്ഷേ ഇവിടെ ഞാൻ ചുറ്റും പോകുന്നു അതിനാൽ എനിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു ഇതാണ് ഫാരഡെയുടെ ഫീൽഡുകളുടെ നിയമം ഇത് നിങ്ങളോട് പറയുന്നത് മാറുന്ന B E നൽകുന്നു കൂടാതെ സമവാക്യം കേൾ E എന്നത് മൈനസ് dB by dt ക്ക് തുല്യമാണ് ലെൻസിന്റെ നിയമം കാരണം ഈ മൈനസ് ചിഹ്നം വീണ്ടും വരുന്നു അത് നമ്മൾ കാണുന്ന സമവാക്യത്തിന് ശരിയായ ദിശകൾ നൽകുന്നു ഇത് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പരിഹരിക്കാം ഞാൻ എടുക്കുന്ന ഉദാഹരണം ഒരു ടോറോയിഡ് ആണ് അതായത് അത് ഒരു നേർത്ത ട്യൂബാണ് അതിനുചുറ്റും കറന്റ് വഹിക്കുന്ന വയർ നമ്മൾ പൊതിഞ്ഞിരിക്കുന്നു മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു നീളമുള്ള നേർത്ത സോളിനോയിഡ് ആണ് ഇത് ചുറ്റി വളയമായി മാറ്റിയിരിക്കുന്നു അതിനാൽ ഇതിനുള്ളിലെ കറന്റിന്റെ ദിശയെ ആശ്രയിച്ച് ഫീൽഡ് പൂജ്യം അല്ലാതായിരിക്കും പുറത്തെ ഫീൽഡ് 0 ആയിരിക്കും അതിനാൽ ഇവിടെയുള്ള വളയത്തിനുള്ളിൽ ഫീൽഡ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നു ഇതിന്റെ ആരം അതിൻറെ കാനം അല്ലെങ്കിൽ ക്രോസ് സെക്ഷനെക്കാൾ വളരെ വലുതായി നമുക്ക് എടുക്കാം ഇത് ക്രോസ് സെക്ഷന്റെ സ്ക്വയർ റൂട്ടിനേക്കാൾ വളരെ വലുതാണ് അതിനാൽ ഇത് ഒരു വളയം ഉണ്ടാക്കുന്ന നേർത്ത ട്യൂബ് പോലെയാണ് ഞാൻ ഈ ടോറോയിഡിലെ കറന്റ് മാറ്റുകയാണെങ്കിൽ അത് സ്ഥിരമായ നിരക്കിൽ വർദ്ധിക്കുന്നു എങ്കിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം a ഇത് ഒരു വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കുമോ കൂടാതെ b ഉണ്ടെങ്കിൽ അതിന്റെ മൂല്യം ടോറോയിഡിന്റെ അക്ഷത്തിൽ കണ്ടെത്തുക അതിനാൽ നമുക്ക് ഇത് നോക്കാം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഒരു നേർത്ത ടോറോയ്ഡ് ഉണ്ട് കൂടാതെ വൈദ്യുത പ്രവാഹം വർദ്ധിക്കുമ്പോൾ അതിനുള്ളിലെ ഈ ഫീൽഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫീൽഡ് മാറുകയാണെങ്കിൽ അത് ഒരു വൈദ്യുത മണ്ഡലം ഉത്പാദിപ്പിക്കുന്നു എന്നാണ് അത് കേൾ E എന്നതിനെ മൈനസ് dB by dt യ്ക്ക് തുല്യമാക്കുന്നു കാന്തികക്ഷേത്രവുമായുള്ള സാമ്യം കേൾ B എന്നതിനെ mu 0 J യ്ക്ക് തുല്യമാക്കുന്നു ചാർജ് ഇല്ലാത്തതിനാൽ ഡൈവർജൻസ് E പൂജ്യത്തിന് തുല്യമായിരിക്കും എനിക്ക് B യുടെ ഡൈവർജൻസ് 0 ന് തുല്യമാണ് ഫീൽഡിനും കാന്തികക്ഷേത്രത്തിനും സമാനമായ ഒരു വസ്തു ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു കറന്റ് വഹിക്കുന്ന വളയത്തിന് സമാനമായിരിക്കും ഈ വളയത്തിന്റെ അക്ഷത്തിൽ ഉണ്ടാകുന്ന B ഫീൽഡ് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നു ഈ അവസ്ഥയിൽ കറൻറ് എന്താണ് കറൻറ് J ഡോട്ട് da ആണ് ഇവിടെ da എന്നത് വളയത്തിന്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ അതിന് സമാനമായി മൈനസ് ചിഹ്നത്തോടുകൂടിയ ഫ്ലക്സ് by dt ഉണ്ട് മൈനസ് d by dt ഫ്ലക്സ് I എന്നതിൻറെ പങ്ക് വഹിക്കും ഇവിടെ കാന്തിക മണ്ഡലം എങ്ങനെ കണക്കാക്കാം കാന്തികക്ഷേത്രം ഇന്റഗ്രേഷൻ mu 0 I ഓവർ 4 പൈ dl ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ്ഡ് ആകുന്നു അതിനാൽ E r t ആകാൻ പോകുന്ന വൈദ്യുത മണ്ഡലം മൈനസ് 1 by 4 പൈ d ഫൈ by dt ഇന്റഗ്രൽ dl ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ്ഡ് ആയിരിക്കും ഇവിടെ mu 0 ഇല്ല I ക്ക് പകരം മൈനസ് d ഫൈ by dt ആക്കിയിരിക്കുന്നു കഴിഞ്ഞ ഒരു അസൈൻമെന്റിൽ നമ്മൾ ചെയ്തതുപോലെ ഈ ഇന്റഗ്രൽ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ അതെ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് കൂടാതെ മുകളിലുള്ള ഫോർമുല ഉപയോഗിച്ച് അത് കണക്കുകൂട്ടാൻ കഴിയും അതിനാൽ ഞാൻ ഈ പ്രഭാഷണം പൂർത്തിയാക്കുന്നത് ഫാരഡെയുടെ നിയമം ഇപ്പോൾ ഫീൽഡുകളുടെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് നോക്കിയത് കൂടാതെ ഏതെങ്കിലും മാറുന്ന കാന്തികക്ഷേത്രം ഒരു വൈദ്യുത മണ്ഡലത്തിന് കാരണമാകുമെന്നും അത് ഒരു വൈദ്യുത പ്രവാഹത്തെ നയിക്കുമെന്നും പറഞ്ഞു പ്രകടനത്തിൽ നിങ്ങൾ കണ്ടത് ഇതാണ് അവിടെ ഒരു പ്രദേശവും മാറുന്നില്ല പക്ഷേ കാന്തികക്ഷേത്രം മാത്രം മാറിക്കൊണ്ടിരുന്നു പക്ഷേ അത് LED പ്രകാശിക്കാൻ കാരണമായിരുന്നു അത് വളയങ്ങൾ ചാടാൻ ഇടയാക്കി